ഈ കോഴ്സിൽ ഫിസിക്കൽ ഡിസൈൻ പ്രക്രിയയ്ക്കായുള്ള ഡിസൈൻ ഫ്ലോയിൽ ടൈമിംഗ് ഡ്രൈവൻ കോൺസ്ട്രയിന്റ്സ് നിയന്ത്രണങ്ങൾ സിന്തെസിസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില സാങ്കേതിക വിദ്യകൾ നമ്മൾ ഇതുവരെ കണ്ടു ഈ പ്രഭാഷണത്തിൽ ഞാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലാത്ത ചില സാങ്കേതിക വിദ്യകൾ കൂടി നോക്കാം അതിനാൽ ടൈമിംഗ് ഒപ്റ്റിമൈസേഷനായുള്ള ചില വ്യത്യസ്ത സമീപനങ്ങളെയാണ് നമ്മൾ ഇവയെ പരാമർശിക്കുന്നത് പരിശീലിക്കുന്ന വളരെ ഉപയോഗപ്രദമായ ചില സാങ്കേതികതകളെപ്പോലെ ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് നോക്കാം അവ റിടൈമിങ് ഉപയോഗപ്രദവുമായ ക്ലോക്ക് ചരിവ് എന്ന് പരാമർശിക്കുന്നു ഇപ്പോൾ റിടൈമിങ് ഉപയോഗപ്രദവുമായ ക്ലോക്ക് അവർ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ സമയ ആവശ്യകത നിറവേറ്റുന്നതിനായി നിങ്ങൾ സർക്യൂട്ട് നെറ്റ്ലിസ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് നമ്മൾക്കു ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയുക നമ്മൾക്കു ചില സമയ പാരാമീറ്ററുകൾ അല്ലെങ്കിൽ ശബ്ദശാസ്ത്രം പാലിക്കേണ്ടതുണ്ട് ചില ലംഘനങ്ങൾ ഉണ്ട് അതിനാൽ നമ്മൾ നേരത്തെ കണ്ടത് ഒന്നുകിൽ ഒരു ഗേറ്റിന്റെ വലുപ്പം കൂട്ടാം ഒരു ലൈനിന്റെ ഡിലേയ് ബഫറുകൾ ചേർക്കുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാം തുടർന്ന് ഫാനിൻ ഫാനൌട്ട് എന്നിവ റീസ്ട്രക്ച്ചറിങ് പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകളും നമുക്ക് ഉപയോഗിക്കാം ഒരു സർക്യൂട്ടിന്റെ പാതകൾ നിയമങ്ങൾ ഉപയോഗിച്ച് ഗേറ്റുകൾ തനിപ്പകർപ്പാക്കുകയോ ക്ലോൺ ചെയ്യുകയോ ചെയ്യുക ബൂലിയൻ അൽജിബ്ര ഗേറ്റ് ലെവൽ നെറ്റ്ലിസ്റ്റിലേക്ക് ചില ലളിതവൽക്കരണങ്ങളോ പരിഷ്ക്കരണങ്ങളോ നടത്താനും മറ്റും സർക്യൂട്ടിന്റെ ഘടനാപരമായ തലത്തിൽ പ്രവർത്തിക്കുകയും അതിൽ ചില സംപ്രേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന മറ്റ് ചില സാങ്കേതിക വിദ്യകളുമുണ്ട് അതിനാൽ ഡിലേയ്യുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ തൃപ്തിപ്പെടാത്തതിനാൽ അവ തൃപ്തിപ്പെടാം നമുക്ക് റിടൈമിങ് എന്ന ആശയം നോക്കാം അതിനാൽ ഇവിടെ നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉണ്ട് നമുക്ക് ഈ ഉദാഹരണം കൊണ്ട് തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കാം 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഈ 3 ഫ്ലിപ്പ് പോപ്പുകളിലേക്കും ക്ലോക്ക് സിഗ്നൽ വരുന്നു കൂടാതെ അതിനിടയിൽ ചില ഗേറ്റ് ലെവൽ കോമ്പിനേഷൻ സർക്യൂട്ടുകൾ ഉണ്ട് ഞാൻ ഈ സർക്യൂട്ട് വീണ്ടും വരയ്ക്കട്ടെ ഇവ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് അതിനാൽ ഇവിടെ നിങ്ങൾ പറയുന്നത് ഇൻപുട്ട് ഇവിടെ വരുന്നു ഔട്ട്പുട്ട് 3 ഇൻപുട്ട് ഗേറ്റിലേക്ക് വരുന്നു നമുക്ക് പറയാം ഞാൻ അതേ ഉദാഹരണം ഉപയോഗിക്കുന്നു ഏത് തരത്തിലുള്ള ഗേറ്റാണ് പ്രധാനമല്ലെന്ന് ഇൻപുട്ട് തിരിക്കുക അതിനാൽ ഇത് ഇവിടെ വീണ്ടും ഇൻപുട്ടിലേക്ക് വരുന്നുവെന്ന് ഞാൻ കാണിക്കുന്നില്ല മറ്റൊരു ഗേറ്റിലേക്ക് വരുന്ന മറ്റൊരു ഗേറ്റ് ഇവിടെയുണ്ടെന്ന് നമുക്ക് പറയാം സ്ലൈഡുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഗേറ്റുകളുടെ ഡിലേയ് ഇത് 6 ഇത് 4 ഇത് 2 ഇത് 4 ഇത് 4 എന്നിങ്ങനെ പറയട്ടെ കൂടാതെ ക്ലോക്ക് സിഗ്നൽ എല്ലാവർക്കും നൽകുന്നു 3 ഫ്ലിപ്പ് പോപ്പുകൾ ചോദ്യം അങ്ങനെയാണ് നമ്മൾ ക്ലോക്ക് സിഗ്നലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമയപരിധി എന്തായിരിക്കണം എപ്പോൾ ഇവിടെ ഞങ്ങൾ ചില കാര്യങ്ങൾ അവഗണിക്കുകയാണ് കാരണം ഞങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം അല്പം വ്യത്യസ്തമാണ് ഞങ്ങൾ സജ്ജീകരണ സമയം ഹോൾഡ് ടൈം അവഗണിക്കുകയാണ് ഞങ്ങൾ ക്ലോക്ക് സ്കീവും അവഗണിക്കുകയാണ് കാരണം ഇവ എന്താണെന്നും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു ഈ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വ്യത്യസ്ത നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ഇവിടെ ഞങ്ങൾ അനുമാനിക്കുന്നത് ക്ലോക്ക് അരികുകൾ മൂർച്ചയുള്ളതും എല്ലാം ക്ലോക്ക് ട്രാൻസിഷനിൽ നടക്കുന്നതും അവ ക്ലോക്കിന്റെ മുൻവശത്ത് നടക്കുമെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലെവൽ നെറ്റ്ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ വ്യതിരിക്തമായ ഡിലേയ്യോടെ ക്ലോക്കിന്റെ സമയപരിധി എന്തായിരിക്കണമെന്ന് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടു ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഈ സർക്യൂട്ടിൽ 2 കോമ്പിനേഷണൽ സെക്ഷനുകൾ ഉണ്ട് ആദ്യ പാത്ത് 12 രണ്ടാമത്തെ പാത്ത് 8 കുറഞ്ഞത് 12 ന് തുല്യമാണ് വീണ്ടും ഞാൻ പറയുന്നത് സെറ്റപ്പ് അവഗണിക്കുക ഹോൾഡ് ചെയ്യുക ക്ലോക്ക് സ്കീവും അവഗണിക്കുക അതിനാൽ യഥാർത്ഥ സമയം 12 ഉം ഈ കാര്യങ്ങളും ആയിരിക്കും ഇത് അവഗണിച്ചുകൊണ്ട് സമയപരിധി കുറഞ്ഞത് 12 ആയിരിക്കണം കാരണം ഇത് 12 ൽ കുറവാണെങ്കിൽ അടുത്ത ഘട്ടം വരുന്നതിനുമുമ്പ് ഈ ആദ്യ കൂട്ടുകെട്ട് സർക്യൂട്ട് അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കില്ല ഇപ്പോൾ കാര്യം നിങ്ങൾ ഈ തലത്തിൽ ഘടനാപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കോമ്പിനേഷണൽ യുക്തി ഇവിടെ ഒരേപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ നന്നായി കാണുന്നുവെന്ന് നിങ്ങൾക്ക് ഒരു നിരീക്ഷണം നടത്താൻ കഴിയും ഇവിടെ 12 ന്റെ കാലതാമസം ഉണ്ട് 8 ഡിലേയ് ഉണ്ട് അതിനാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലുടനീളമുള്ള ചില ഗേറ്റുകൾ ഈ വശത്തേക്ക് മാറ്റാൻ കഴിയുമോ പ്രവർത്തനം മാറ്റുകയോ പരിഷ്ക്കരിക്കുകയോ ചെയ്യാതെ അതിനാൽ ഉദാഹരണമായി ഇത് ഒരു സാധ്യതയാണ് ഇതേ ഉദാഹരണത്തിൽ നമുക്ക് ഇത് ചെയ്യാം ഈ മാറ്റം വരുത്താൻ നമുക്ക് ശ്രമിക്കാം അതേ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അവിടെയുണ്ടെന്ന് പറയട്ടെ എന്നാൽ ഞങ്ങൾ വരുത്തുന്ന മാറ്റം ഈ 3 ഗേറ്റുകൾക്ക് പകരം ഇവിടെ 2 ഗേറ്റുകൾ മാത്രമാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ ഗേറ്റ് ഞങ്ങൾ ഇത് ഇങ്ങോട്ട് മാറ്റുകയാണ് ഇതുപോലുള്ള ഒന്ന് അതിനാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് ഈ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇവിടെ ഡിലേയ് 6 4 10 ഇവിടെ 4 4 8 ആണ് ഈ ഗേറ്റ് ഡിലേയ് 2 ആയിരുന്നു ഇപ്പോൾ ഡിലേയ് ഏകീകൃതമായി സന്തുലിതമാവുകയാണ് ഇവിടെയും ഇത് 10 ആണ് ഇവിടെയും ഇത് 10 അതിനാൽ ഇപ്പോൾ നേരത്തേ 12 ആയിരുന്ന ക്ലോക്ക് പിരീഡ് T എന്നതിന്റെ ഒരു സാഹചര്യം നമുക്ക് ലഭിക്കുന്നു കാരണം പരമാവധി ഡിലേയ് 12 ആയതിനാൽ നമുക്ക് അത് 10 ആയി കുറയ്ക്കുവാൻ കഴിഞ്ഞു ചെയ്യുന്നതിലൂടെ ഞാൻ കുറച്ച് ഹാർഡ്വെയർ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു സർക്യൂട്ടിന്റെ ഈ ഭാഗത്ത് നിന്ന് സർക്യൂട്ടിന്റെ ഈ ഭാഗത്തേക്ക് ഒരു ഗേറ്റ് മാറ്റി ഒരു സർക്യൂട്ടിന്റെ ഡിജിറ്റൽ ഭാഗം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരു സാധാരണ ഡാറ്റാ പാതയിൽ നിരവധി ഫ്ലിപ്പ് പോപ്പുകളോ സ്റ്റോറേജ് സെല്ലുകളോ ഉള്ള അത്തരം സർക്യൂട്ട് അതിനിടയിൽ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ ഉണ്ട് അതിനാൽ സർക്യൂട്ടിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്താതെ അല്ലെങ്കിൽ മാറ്റം വരുത്താതെ തന്നെ ചില ഗേറ്റുകളോ സർക്യൂട്ടുകളോ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലൂടെ നീക്കാൻ സാധിക്കും തീർച്ചയായും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് മറ്റെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനാൽ ആ ഫാനൌട് കണക്ഷനുകൾ നിങ്ങൾ അതിനനുസരിച്ച് ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ റിടൈമിങ് ഒരു ലളിതമായ സാങ്കേതികതയാണ് ഈ ഉദാഹരണത്തിലൂടെ ഞങ്ങൾ നേരത്തേ 12 ആയിരുന്ന ക്ലോക്ക് സൈക്കിൾ സമയം 10 ആയി കുറയ്ക്കാൻ കഴിഞ്ഞു അതിനാൽ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ് അതിനാൽ നേരത്തെ ഇത് 12 ആയിരുന്നു ഇപ്പോൾ ഈ ഗേറ്റ് ഇവിടെ നിന്ന് നീക്കിയാൽ ഇപ്പോൾ പുതിയ ക്ലോക്ക് സൈക്കിൾ സമയം 10 ആയി ഇപ്പോൾ ഉപയോഗപ്രദമായ ക്ലോക്ക് സ്ക്യൂ മറ്റൊരു പ്രധാന കാര്യമുണ്ട് അതിനാൽ നമുക്ക് ഈ ഡയഗ്രം വീണ്ടും നോക്കാം അതിനാൽ ഈ ഡയഗ്രം ഞാൻ വിശദീകരിക്കട്ടെ ഞാൻ വീണ്ടും സ്ലൈഡിലേക്ക് പോകും നിങ്ങൾ ഇവിടെ കാണുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് സന്തുലിതമല്ലാത്ത സർക്യൂട്ട് ആണെന്ന് അതിനാൽ നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇവിടെ നന്നായി കാണുന്നു അതിന്റെ ഡിലേയ് 12 ആയിരുന്നു ഇത് 8 ആയിരുന്നു കൂടാതെ ക്ലോക്ക് സ്ക്യൂ ഇല്ലെന്ന് കരുതുക ക്ലോക്ക് സൈക്കിൾ സമയം പരമാവധി 12 കഷണമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ സർക്യൂട്ടിൽ ചില ഡിലേയ് ഉൾപ്പെടുത്താം ഉദാഹരണത്തിന് പറയാൻ ഇഷ്ടപ്പെടുന്നതുപോലെ ഞങ്ങൾ മനപൂർവ്വം ഒരു ഡിലേയ് ഇവിടെ അവതരിപ്പിക്കുന്നു അതിനാൽ ഒരു ഡിലേയ് അവതരിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് കാണുക നമുക്ക് ഒരു ബഫർ അവതരിപ്പിക്കാൻ കഴിയുന്നതുപോലെ ഞങ്ങൾ ഒരു ജോടി ഇൻവെർട്ടറുകൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ഒരു നീണ്ട സിഗ്സാഗ് വയർ അവതരിപ്പിക്കുന്നു അത് ഇന്റർകണക്ഷൻ ഡിലേയ്യാകും ഒരു ഡിലേയ് അവതരിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ പറയുന്നത് ക്ലോക്ക് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലൊന്നിൽ ഞങ്ങൾ മനപ്പൂർവ്വം ഒരു സ്ക്യൂ അവതരിപ്പിക്കുന്നു ഒരു ഡിലേയ് അവതരിപ്പിക്കുന്നു ഞാൻ പറയുന്നത് ഞങ്ങൾ മനപ്പൂർവ്വം ഇവിടെ ഒരു ഡിലേയ് അവതരിപ്പിക്കുന്നുവെന്ന് കരുതുക പ്ലസ് 2 ഒരു ഡിലേയ് എന്ന് പറയുക അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം ഈ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ചോദ്യം ചെയ്യുന്നതിനാൽ നമുക്ക് ചില പേരുകൾ സൂക്ഷിക്കാം ഇത് ക്ലോക്ക് 1 ആണെന്ന് നമുക്ക് പറയാം നമുക്ക് ഇതിനെ ക്ലോക്ക് 2 എന്ന് വിളിക്കാം അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്താണ് ക്ലോക്ക് 1 പറയുന്നത് ക്ലോക്ക് 1 ഇതുപോലെയായിരുന്നു അത് വരുന്നു ക്ലോക്ക് 2 എന്താണ് ഇവിടെ ക്ലോക്ക് 1 a ആണ് ഇതിന് 2 കാലതാമസം ഉണ്ട് അപ്പോൾ ഒരു ക്ലോക്ക് 2 എന്തായിരിക്കും ക്ലോക്ക് 2 ന് മുമ്പ് ഇതുപോലുള്ള സമയ യൂണിറ്റുകളിലൂടെ അറ്റങ്ങൾ വരുന്നു ഇത് 2 ആണ് ഇപ്പോൾ ഇത് കാരണം നമ്മുടെ സർക്യൂട്ട് പ്രകടനത്തിലും പ്രവർത്തനത്തിലും എന്താണ് സ്വാധീനം എന്ന് നോക്കാം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് ഇവിടെ സംഭരിക്കേണ്ട ചില ഡാറ്റ സൃഷ്ടിച്ചുവെന്ന് അനുമാനിക്കുന്ന t 0 സമയം മുതൽ നമുക്ക് ആരംഭിക്കാം അതിനാൽ ക്ലോക്ക് 1 ഞാൻ പറയുന്നത് ക്ലോക്ക് 1 ഞങ്ങൾ മനപ്പൂർവം 2 ഡിലേയ് സൃഷ്ടിക്കുന്നു എന്നാണ് അതിനാൽ Q ൽ ഞങ്ങൾ ഈ ഡാറ്റ സൃഷ്ടിച്ച സമയം t 0 എന്ന് പറയാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഡാറ്റ അവിടെയുണ്ട് ഇതായിരിക്കും ഇത് സമയത്തിന് ശേഷമുള്ള ഇൻപുട്ടിൽ ലഭ്യമാണ് ഇപ്പോൾ സമയം 12 ന് ശേഷം എന്ത് സംഭവിക്കും ഇത് നമുക്ക് പറയാം ഇത് നമ്മുടെ ക്ലോക്ക് പിരീഡ് 10 ആണെന്ന് കരുതുക ഇപ്പോൾ 12 അതിനാൽ നമ്മുടെ ക്ലോക്ക് പിരീഡ് ഇത് 10 ആണ് ഇതാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് നേരത്തേ ഞങ്ങൾ ഇത് ഒരു ഗേറ്റ് ചുറ്റിക്കൊണ്ട് ചെയ്തു എന്നാൽ ഇവിടെ നമുക്ക് ഇത് 10 നോക്കാം അതിനാൽ ഈ Q മാറുന്ന എന്റെ സമയം ഇതാണ് t 0 അതിനാൽ ഒരു സമയത്തിന് ശേഷം 12 D യുടെ ഈ ഇൻപുട്ട് തയ്യാറായിരിക്കണം അതുകൊണ്ട് ആ 12 എന്താണ് ഇത് 2 ആണ് ഇത് ഞാൻ സൃഷ്ടിച്ച സ്ക്യൂ ആണ് ഈ ക്ലോക്ക് 1 പ്ലസ് 10 ന് ശേഷം വരുന്നു അതിനാൽ ഇവിടെ ഈ പോയിന്റ് 12 ന് തുല്യമാണ് ഈ ഡാറ്റ തയ്യാറായിരിക്കണം അതിനാൽ ഈ ക്ലോക്ക് എഡ്ജ് ക്ലോക്ക് 1 വരുമ്പോൾ ഈ ഡാറ്റ ഇതിനകം തയ്യാറാണ് രണ്ടാമത്തേത് നോക്കുക അതിനാൽ ഈ ക്ലോക്ക് 1 എഡ്ജ് വരുമ്പോഴെല്ലാം ക്ലോക്ക് 1 എഡ്ജ് വരുമ്പോഴെല്ലാം മുമ്പത്തേത് പറയട്ടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിന്റെ ഡാറ്റ സംഭരിക്കും അതിനാൽ നമുക്ക് മറ്റൊരു നിറം ഉപയോഗിക്കാം അതിനാൽ ഡാറ്റ ഇവിടെ സംഭരിക്കപ്പെടും നമുക്ക് ഇവിടെ പറയാം ഇപ്പോൾ ഈ സർക്യൂട്ട് കണക്കുകൂട്ടാൻ 8 യൂണിറ്റ് സമയം ആവശ്യമാണ് അതിനാൽ 8 യൂണിറ്റുകൾക്ക് ശേഷം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 8 അതിനാൽ ക്ലോക്ക് 2 എഡ്ജ് വരുന്ന സമയത്ത് നിങ്ങൾ കാണുന്നു ഇത്തവണ 8 ഉണ്ട് അതിനാൽ ക്ലോക്ക് 2 വരുമ്പോൾ ഈ ഡാറ്റ ഇതിനകം ഇവിടെ വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങൾ അത് ശരിയായി ഇവിടെ പൂട്ടുന്നു അതിനാൽ ഈ സർക്യൂട്ട് നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഈ ക്ലോക്ക് 1 ൽ 2 യൂണിറ്റുകളുടെ ഡിലേയ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഗേറ്റ്സ് വലതുവശത്തേക്ക് ചലിപ്പിക്കാതെ നമുക്ക് അത് സന്തുലിതമാക്കാൻ കഴിഞ്ഞു ഇത് യൂസ്ഫുൾ സ്ക്യൂ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് അതിനാൽ ഞങ്ങൾ ഒരു സർക്യൂട്ടിൽ മനപ്പൂർവ്വം ഒരു സ്ക്യൂ അവതരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഞങ്ങൾ ചിത്രീകരിച്ചതുപോലെ ഈ സർക്യൂട്ട് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും സർക്യൂട്ടിന് 12 ന് പകരം വേഗതയേറിയ ക്ലോക്കിൽ പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങൾക്ക് 10 ന്റെ ക്ലോക്ക് പിരീഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു നമുക്ക് തിരിച്ചു വരാം ഇവിടെ ഞങ്ങൾ ഒരു ക്ലോക്ക് സിഗ്നലിലേക്ക് സ്കേ ചേർക്കുന്നു ഈ സാഹചര്യത്തിൽ രണ്ടാമത്തേതും മധ്യഭാഗത്തേയും അതിനാൽ സിഗ്നൽ വൈകുന്നതിന് നിങ്ങൾക്ക് ചില ബഫറുകൾ അവതരിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിരവധി മാർഗങ്ങളുണ്ട് എന്തെങ്കിലും അവതരിപ്പിക്കുന്നതിനുപകരം നിങ്ങൾക്ക് കുറച്ച് ഡമ്മി കപ്പാസിറ്റീവ് ലോഡ് അവതരിപ്പിക്കാൻ കഴിയും കുറച്ച് ഫാനൌട്ടുകൾ ചേർക്കുക അതായത് ഇവിടെ ചില ലോഡുകൾ നിങ്ങൾ സിഗ്നൽ മന്ദഗതിയിലാക്കുകയോ സ്നാക്കിംഗ് ചെയ്യുകയോ ചെയ്താൽ ഇവിടെ ഒരു സിഗ്സാഗ് കണക്ഷൻ ഉണ്ടാക്കുക അതിനാൽ ആ വഴി പരസ്പരബന്ധന ഡിലേയ് നീളുന്നു അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ ആ ടൈമിംഗ് ഡയഗ്രാമിലൂടെ ഞാൻ കാണിച്ചതുപോലെ സൈക്കിൾ സമയം 10 ഇവിടെ മികച്ചതായി മാറുന്നു ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉപ പ്രശ്നം നോക്കാം വലിയ കപ്പാസിറ്റൻസുകൾ നയിക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ഒരു ഇൻവെർട്ടർ ഒരു ബഫറായി ഉപയോഗിക്കുന്നുവെന്ന് പറയുക അതിനാൽ നമുക്ക് ഈ CMOS ലെവൽ ഡയഗ്രം നോക്കാം ഇവിടെ നമുക്ക് ഒരു CMOS ഇൻവെർട്ടർ ഉണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു CMOS ഇൻവെർട്ടർ ഉണ്ട് ഈ ഇൻവെർട്ടർ ഈ ഇൻവെർട്ടർ ശരിയായി ഓടിക്കുന്നുവെന്ന് നമുക്ക് പറയാം CL എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലോഡ് കപ്പാസിറ്റൻസ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഈ N ടൈപ്പും P ടൈപ്പ് ട്രാൻസിസ്റ്ററുകളും വലുപ്പത്തിൽ ഏകദേശം തുല്യമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു പക്ഷേ ഇലക്ട്രോണുകളുടെയും ചലനങ്ങളുടെയും ചലനാത്മകതയിലെ വ്യത്യാസം കാരണം P ടൈപ്പ് ട്രാൻസിസ്റ്റർ അല്പം വലുതാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ വലുപ്പങ്ങൾ 1 ഉം കാപ്പിറ്റൽ A യും ആണെന്ന് നമുക്ക് പറയാം അവിടെ A ഒന്നിനേക്കാൾ അല്പം വലുതായിരിക്കാം 1 1 അല്ലെങ്കിൽ 1 2 അതുപോലുള്ള ഒന്ന് ഈ സിൻ ഈ ചെറിയ ഇൻവെർട്ടറിന്റെ അടിസ്ഥാന കപ്പാസിറ്റൻസ് മൂല്യത്തെ സൂചിപ്പിക്കുന്നു ഈ ഏറ്റവും ചെറിയ ഇൻവെർട്ടറിന് 1 A വലുപ്പങ്ങൾ പുള്ള് അപ്പ് ആൻഡ് പുള്ള് ഡൌൺ ചെയ്യാൻ കഴിയും ഈ ഏറ്റവും ചെറിയ ഒന്ന് ഗേറ്റ് കപ്പാസിറ്റൻസിന്റെ ആകെത്തുക നമുക്ക് അതിനെ സിൻ എന്ന് വിളിക്കാം ഇത്തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ ഡ്രൈവിംഗ് അർത്ഥമാക്കുന്നത് മറ്റൊരു ഇൻവെർട്ടർ വലുതാണ് ഈ ഗേറ്റ് വലുതാണ് വലുപ്പം നിങ്ങൾ കാപ്പിറ്റൽ U ടൈംസ് A പോലെ കാണുന്നു അതിനാൽ ഞങ്ങൾ ഈ രണ്ട് ഇൻവെർട്ടറുകളും U മടങ്ങ് വലുതായി അതിനാൽ ഈ ഇൻവെർട്ടറിന് U മടങ്ങ് കൂടുതലുള്ള കറന്റ് ഓടിക്കാൻ കഴിയും കാരണം പ്രതിരോധങ്ങൾ U മടങ്ങ് കുറവാണ് അവ വിശാലമാണ് അവ U ഇരട്ടി വീതിയുള്ളതാണ് അതിനാലാണ് അവരുടെ പ്രതിരോധ മൂല്യം R കൊണ്ട് ഹരിക്കപ്പെടുന്നത് അതിനാൽ RC മൊത്തം ചാർജിംഗ് ഡിസ്ചാർജ് സമയം ആയിരിക്കും എനിക്ക് R ഉപയോഗിച്ച് പ്രതിരോധം നടത്താൻ കഴിയുമെങ്കിൽ U ചാർജിംഗ് ഡിസ്ചാർജിംഗ് U സമയത്തെ വേഗത്തിലാക്കും മൊത്തം ഔട്ട്പുട്ട് ലോഡ് കപ്പാസിറ്റൻസ് കാപ്പിറ്റലിന്റെ X മടങ്ങ് ഈ മിനിമം ബേസ് കപ്പാസിറ്റൻസ് സിൻ ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ X ഒരു ഘടകമാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോടി ഇൻവെർട്ടറുകളുടെ മൊത്തം പ്രചാരണ ഡിലേയ് എന്തായിരിക്കുമെന്ന് കണക്കാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഞാൻ ഈ പദപ്രയോഗം എഴുതുകയാണ് അത് അർത്ഥവത്താണോ എന്ന് നിങ്ങൾ കാണുക അതിനാൽ മൊത്തം ഡിലേയ്യ് നമുക്ക് അതിനെ ക്യാപിറ്റൽ D എന്ന് വിളിക്കാം ഞാൻ U T എന്നാണ് എഴുതുന്നത് UtpXUtp ഇവിടെ tp ആണ് ഡിലേയ്യ് tp അടിസ്ഥാന ഇൻവെർട്ടർ ഡിലേയ്യ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഒരു ചെറിയ ഇൻവെർട്ടറിന്റെ ഡിലേയ്യ് സമാനമായ ലോഡ് ഓടിക്കുമ്പോൾ അടിസ്ഥാന ഇൻവെർട്ടർ ഡിലേയ്യ് അതിനർത്ഥം അടിസ്ഥാന ഇൻവെർട്ടർ ഡിലേയ്യ് എന്നാണ് ഞാൻ പറഞ്ഞതുപോലെ ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് നമ്മൾ ഏറ്റവും ചെറിയത് Cin എന്ന് ഉഹിക്കുന്നത് അതിനാൽ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും Cin ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ നിങ്ങൾ tp എന്ന് വിളിക്കുന്ന അതേ ചെറിയ വലുപ്പത്തിലുള്ള മറ്റൊരു ഗേറ്റ് ഇത് ഓടിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ പ്രയോഗം എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം U tp കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾ ഒരിക്കൽ കൂടി സ്ലൈഡ് നോക്കുക ആദ്യത്തെ ഇൻവെർട്ടർ ഒരു കപ്പാസിറ്റൻസ് ഓടിക്കുന്നത് നിങ്ങൾ കാണുന്നു ഈ കപ്പാസിറ്റൻസ് ഇത് U മടങ്ങ് വലുതാണ് അതിനാൽ ഈ ഡിലേയ്യ് വെറും tp മാത്രമല്ല Utp കാരണം ചാർജിംഗും ഡിസ്ചാർജും U മടങ്ങ് കൂടുതൽ എടുക്കും കാരണം കപ്പാസിറ്റൻസ് മൂല്യം UCin ശരിയായിരിക്കും ഇത് UCin ആണ് അതുകൊണ്ടാണ് ഇത് അടിസ്ഥാന ഇൻവെർട്ടർ ഡിലേയ്യ് കൊണ്ട് ഗുണിക്കുന്നത് രണ്ടാമത്തേതിന്റെ കാര്യമോ രണ്ടാമത്തേത് നിങ്ങൾ കാണുന്നു രണ്ടാമത്തേത് ഈ ട്രാൻസിസ്റ്റർ U മടങ്ങ് വലുതാണ് ഇത് X Cin ലോഡ് ഓടിക്കുന്നു അതിനാൽ എത്രമാത്രം ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ഇൻവെർട്ടർ ഡിലേയ്യ് എത്ര തവണ ആവശ്യമാണ് ഇത് XU ആയിരിക്കും കാരണം U വലുതായിരിക്കും സമയം കൂടുതലോ അധികമോ X കൂടുതൽ സമയം ആകും അങ്ങനെ നിങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ ഈ CL ഓടിക്കുന്ന ഈ ഇൻവെർട്ടറിന് കാലതാമസം XUtp ആയിരിക്കും ഇപ്പോൾ മിനിമം D കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ക്യാപിറ്റൽന്റെ U D യുടെ മൂല്യം എത്രയായിരിക്കും അതിനാൽ ഞങ്ങൾ എന്തുചെയ്യും U മായി ഞങ്ങൾ D യെ വേർതിരിക്കുന്നു ആയിരിക്കുമോ tp XU2 tp മിനിമം മൂല്യം കണ്ടെത്താൻ ഞങ്ങൾ ഇത് 0 ആയി തുല്യമാക്കുന്നു അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് U 2 Xനന്നായി അല്ലെങ്കിൽ U X ലഭിക്കും ഇത് X ന്റെ ഒപ്റ്റിമൽ മൂല്യമാണ് ഈ മൂല്യം ഉപയോഗിച്ച് ഡബിൾ ഡിഫറൻഷ്യേഷൻ d2Dd U2 ചെയ്യുക d2Dd U2 എന്നത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് അർത്ഥമാക്കുന്നത് അതുവഴി ഏറ്റവും കുറഞ്ഞ മൂല്യമല്ല പരമാവധി അതിനാൽ ഡിലേയ്യ് കുറയ്ക്കുന്നതിന് U യുടെ മൂല്യം X ആയി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് വളരെ രസകരമായ ഒരു സമവാക്യമാണ് ഇത് പറയുന്നത് നിങ്ങൾ XCin എന്ന ഒരു കപ്പാസിറ്റീവ് ലോഡ് ഓടിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റർ ഒരു ബിറ്റ് ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ എന്താണ് U യുടെ മൂല്യം ആയിരിക്കണം അത് X ആയിരിക്കണം അപ്പോൾ മൊത്തം ഡിലേയ്യ് കുറയ്ക്കും അതിനാൽ ഇവിടെ ഞാൻ പറയുന്നത് ഞങ്ങൾ CL ഓടിക്കാൻ ഒരു ജോടി ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാനാകുന്നതുപോലെ ഒരു ചെറിയ ഇൻവെർട്ടർ ഒരു വലിയ ഇൻവെർട്ടർ അതിനാൽ വലിയ ഇൻവെർട്ടർ വലുപ്പം X ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ 2 ഇൻവെർട്ടറുകൾ ഉപയോഗിക്കാത്ത ഒരു പൊതു കേസ് നോക്കാം പക്ഷേ ബഫറുകളുടെ ഒരു കാസ്കേഡ് ഇത് പ്രായോഗികമായി ചെയ്യുന്നത് സാധാരണയായി കാണുന്നു ഒരു വലിയ കപ്പാസിറ്റീവ് ലോഡ് ഓടിക്കാൻ ഞങ്ങൾ ബഫറുകളുടെ ഒരു കാസ്കേഡ് ഉപയോഗിക്കുന്നു അതിനാൽ അവയിൽ ഓരോന്നും U മടങ്ങ് വലുതായിരിക്കും ആദ്യത്തെ ഇൻവെർട്ടർ 1 വലുപ്പമുള്ള ഏറ്റവും ചെറുതാണെങ്കിൽ ഇത് വലുപ്പം U വലുപ്പം U2 അവസാനത്തേത് UN 1 ആയിരിക്കും അതിനാൽ CL ആണ് മൊത്തം കപ്പാസിറ്റൻസ് അതിനാൽ Cin ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആണ് അതിനാൽ CL UN Cin ആയി നിശ്ചയിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ Uനെ നിർവ്വചിക്കുന്നത് അതിനാൽ ഈ കേസിനായി നമുക്ക് വീണ്ടും സമാനമായി Uന്റെ ഏറ്റവും മികച്ച മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ ഇത് ഈ മൊത്തത്തിലുള്ള ഡിലേയ്യ് കുറയ്ക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇതിനകം കണ്ടത് ഇവിടെ നിന്ന് CL UN Cin ആയിരിക്കുമെന്ന് ഞങ്ങൾ അനുമാനിച്ചു എന്നതാണ് അതിനാൽ N എന്തായിരിക്കുമെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും എൻ logCLCin log U ആയിരിക്കും ഇത് N ആണ് ഇത് 1 ആണ് മൊത്തം ഡിലേയ്യ് ഈ കേസിൽ വീണ്ടും മൊത്തം ഡിലേയ്യ് എന്തായിരിക്കും നിങ്ങൾ ഇവിടെ കാണുന്നു നിങ്ങൾ ഈ ഡയഗ്രം വീണ്ടും നോക്കുന്നു ഇവിടെ ഓരോ ഇൻവെർട്ടറും U ടൈം വലുപ്പമുള്ള മറ്റൊരു ഇൻവെർട്ടർ ഓടിക്കുന്നു 1 U യിലേക്ക് U സ്ക്വയറിലേക്ക് അതിനാൽ ഓരോ ഇൻവെർട്ടറും മറ്റൊരു ഇൻവെർട്ടർ ഡ്രൈവ് ചെയ്യുന്നു അത് U മടങ്ങ് വലുതാണ് അതായത് ബാധകമായ ഡിലേയ്യ് tp 0 tp ആയിരിക്കും നിങ്ങൾക്ക് tpU എന്ന് പറയാം ഇത് U ആകും ഇത് tpU ആയിരിക്കും ഇത് വീണ്ടും tpU ആയിരിക്കും കാരണം ഇവിടെ റെസിസ്റ്റൻസ് U മടങ്ങ് കുറവാണ് കപ്പാസിറ്റൻസ് U2 മടങ്ങ് കൂടുതലാണ് അതിനാൽ U2 കൊണ്ട് ഗുണിച്ചാൽ അത് U ആകും ഒരു U റദ്ദാക്കപ്പെടും U സമയമായിരിക്കും അതിനാൽ മൊത്തം ഡിലേയ്യ് NtpU ആയിരിക്കും അതിനാൽ നിങ്ങൾ ഈ N ന്റെ മൂല്യം ഇവിടെ പകരം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ logCL C in കാണും tpയും ഇവ സ്ഥിരാങ്കങ്ങളാണ് അതിനാൽ ഞാൻ അവയെ ഒരൊറ്റ K ആയി എഴുതുന്നു ഇത് Ulog U ഇത്തരത്തിലുള്ള ഒരു സമവാക്യമായി മാറും അങ്ങനെ നിങ്ങൾ വീണ്ടും D കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് ലോഗ് U d U 1 മൈനസ് U ഡെറിവേറ്റീവ് ആയിരിക്കും U 1U logU 2 കൊണ്ട് ഹരിക്കുക ഇത് 0 ആയിരിക്കും അതിനാൽ നിങ്ങൾ ഇത് പരിഹരിക്കുകയാണെങ്കിൽ ഇത് 1 ആണ് U എന്നത് 1 ന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ഡെറിവേറ്റീവ് ലോഗ് എടുത്തതിനാൽ logU 1U ആണ് അതിനർത്ഥം നിങ്ങൾ അടിസ്ഥാനം e ആണെന്ന് ഊഹിച്ചു എന്നാണ് അതിനാൽ ഏകദേശം 2 7 ന്റെ നേപെരിയൻ അടിത്തറയ്ക്ക് തുല്യമാണ് U എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ U യുടെ ഏറ്റവും മികച്ച മൂല്യം e ആയിരിക്കണം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഈ സമവാക്യം ലഭിക്കും ഇപ്പോൾ മറ്റൊരു രസകരമായ കാര്യം റിപ്പീറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് RC ഡിലേയ്യ് കുറയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ചതുരാകൃതിയിലുള്ള ഒരു വരിയുടെ മൊത്തം ഡിലേയ്യ് അർത്ഥമാക്കുന്നത് ദൂരത്തിന്റെ ചതുരത്തിന് ആനുപാതികമാണെന്ന് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു അതിനാൽ നിങ്ങൾക്ക് 2 നീളമുള്ള ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഡിലേയ്യ് 2 ചതുരം 4 ആയിരിക്കും എന്നാൽ നിങ്ങൾ ഒരു റിപ്പീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ വയർ 2 ഭാഗങ്ങളായി വിഭജിക്കുക അത് 1 ചതുരവും 1 ചതുരവും ആയിരിക്കും അതിനാൽ 4 ന് പകരം ഡിലേയ്യ് ഇപ്പോൾ 2 ആയിത്തീരുന്നു അതിനാൽ അതിനിടയിൽ റിപ്പീറ്ററുകൾ അവതരിപ്പിക്കുന്നതിലൂടെ മൊത്തം ഡിലേയ്യ് കുറയ്ക്കാനാകും അതിനാൽ റിപ്പീറ്ററുകൾ ഇതുപോലെയാണ് റിപ്പീറ്ററുകൾ ഒന്നുമല്ല ചില ശക്തമായ ഡ്രൈവറുകൾ അത് ഇൻവെർട്ടറുകളോ ഒരു ജോടി ഇൻവെർട്ടറുകളോ ആകാം ഇത് ചെറിയ സെഗ്മെന്റ് വയറുകൾ ഓടിക്കാൻ ഉപയോഗിക്കാം ഇവിടെ പോലെ ഒരു നീണ്ട വയർ നിങ്ങൾ വിഭജിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഞാൻ ഒട്ടിച്ച നിരവധി റിപ്പീറ്ററുകൾ ഉണ്ട് അതിനാൽ ഈ ഓരോ വയറുകളും അതിനാൽ മൊത്തം റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആയിരുന്നുവെങ്കിൽ ഞാൻ അവയെ M M എന്നിങ്ങനെ വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു M R M R M അതുപോലെ കപ്പാസിറ്റൻസും C M C M മൊത്തം ഡിലേയ്യ് കുറവായിരിക്കും അതിനാൽ ഇപ്പോൾ റിപ്പീറ്ററുകൾ അല്ലെങ്കിൽ കാസ്കേഡ് ബഫറുകൾ ഉപയോഗിക്കണോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു കാരണം രണ്ട് ഓപ്ഷനുകളും ഉണ്ട് RC ഡിലേയ്യ് നിലനിൽക്കുന്ന നീണ്ട വരികൾ ഓടിക്കാൻ റിപ്പീറ്ററുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ലൈൻ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ഡിലേയ്യ് കുറയുന്നു സാധാരണഗതിയിൽ റിപ്പീറ്ററുകൾ ഒരേ വലുപ്പമുള്ളവയാണ് എന്നാൽ ലോഡ് കപ്പാസിറ്റൻസ് വളരെ കൂടുതലായിരിക്കുമ്പോഴെല്ലാം കാസ്കേഡ് ബഫറുകൾ ഉപയോഗിക്കുന്നു കൂടാതെ പാര്സിറ്റിക് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും എന്നാൽ ഇവിടെ ദീർഘമായ RC ലൈനുകൾക്ക് പാര്സിറ്റിക് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് റിപ്പീറ്ററുകൾ ഉപയോഗിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള കേസുകൾക്ക് ലോഡിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എല്ലാ ബഫറുകളും ഇടാം നിങ്ങൾക്ക് അത് നേരിട്ട് ഡ്രൈവ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ഒരു നീണ്ട ലൈൻ ഉണ്ടെങ്കിൽ അവസാനം ഒരു വലിയ ലോഡ് കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ലഭിക്കും നമുക്ക് അവസാനം ഒരു നീണ്ട ലൈൻ ഉണ്ടെങ്കിൽ ഒരു വലിയ കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് ഇത് ഓടിക്കാൻ അവർക്ക് തുടക്കത്തിൽ ഒരു കാസ്കേഡ് ബഫർ ഉണ്ടായിരിക്കാം തുടർന്ന് ഇത് ഓടിക്കാൻ അവസാനം വീണ്ടും ഒരു കാസ്കേഡ് ബഫർ ഉണ്ടാകും അതിനാൽ ഈ കാസ്കേഡ് ബഫറുകൾ വലിയ കപ്പാസിറ്റീവ് ലോഡുകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഈ ഇന്റർമീഡിയറ്റ് റിപ്പീറ്റർ ഈ നീണ്ട ഇന്റർകണക്ഷൻ ലൈനിന്റെ മൊത്തം RC ഡിലേയ്യ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു കാരണം ഇത് ഒരു നീണ്ട പരസ്പരബന്ധമാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഇതാണ് ടെക്നിക് നിങ്ങൾക്ക് അതിന്റെ ഏത് കോമ്പിനേഷനും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ 2 ടെക്നിക്കുകൾ റിപ്പീറ്ററുകൾ ഉപയോഗിച്ചും മറ്റൊന്ന് കാസ്കേഡ് ബഫറുകൾ ഉപയോഗിച്ചും ഉപയോഗിക്കാം ഉയർന്ന കപ്പാസിറ്റീവ് ലോഡ് ഓടിക്കുന്നതിന് കാസ്കേഡ് ബഫറുകൾ ഉപയോഗിക്കണം നീണ്ട വരികൾ ഓടിക്കാൻ റിപ്പീറ്ററുകൾ ഉപയോഗിക്കണം അതിനാൽ അവസാനം നിങ്ങൾക്ക് ഉയർന്ന കപ്പാസിറ്റൻസ് ലോഡുള്ള ഒരു നീണ്ട ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 2ന്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ വരുന്നു